മൂന്നാമത്തെ ആഴ്ചയിലേക്ക് സ്വാഗതം നമ്മൾ വിവേകപൂർണമായ രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തലച്ചോറിൻറെ ആന്ദോളനങ്ങൾ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച അവസാനഭാഗത്ത് നമ്മൾ സംസാരിച്ചിരുന്നത് അതായത് അടിസ്ഥാനപരമായതും മൈക്രോ തലത്തിൽ ഉള്ളതുമായ വസ്തുതകൾ മനസ്സിലാക്കി അതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടു കൊണ്ട് എന്താണ് ഓസിലേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു വിവരങ്ങൾ വഹിക്കുന്നതിനും വിവരങ്ങൾ മോഡുലേറ്റ് ചെയ്യുന്നതിനും സംയോജിക്കുന്നതിനും വേർതിരിക്കുന്നതിനും മസ്തിഷ്ക ആന്ദോളനങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു അതിനോടൊപ്പം അടിസ്ഥാന ആന്തോളനം എങ്ങനെയാണ് നടക്കുന്നതെന്നും മസ്തിഷ്കത്തിലെ ഏതു പ്രവർത്തനത്തെയും ഏത് ഭാഗത്തെയാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത് എന്നും അതനുസരിച്ച് ഇതിൻറെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു മസ്തിഷ്കം സമന്വയ പ്രക്രിയയ്ക്ക് ശേഷം കാണുന്ന ഒരു ആ വൃത്തിയിലേക്ക് മാറുന്നു പക്ഷേ ഇതുവരെ ഈ ശൃംഖലയെ കുറിച്ചുള്ള മുഴുവൻ ആശയവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ആശയവും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആന്തോളനം എന്ന് അറിയാമെങ്കിലും പുറമേനിന്നുള്ള മാതൃകകളിലൂടെയും രേഖപ്പെടുത്തലുകളിലൂടെയും കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ശൃംഖല ബന്ധപ്പെട്ടിരിക്കുന്നത് അവസാന നൂറ്റാണ്ടിലെ അവസാന ഭാഗങ്ങളിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ചോദ്യം ഇതുതന്നെയായിരുന്നു അതിനുള്ള ആദ്യ ഉത്തരം പുറത്തുവന്നത് ന്യൂറോ സയൻറിസ്റ്റ്കളിൽ നിന്നല്ല ഉത്തരം നൽകിയത് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു മക്കല്ലോച്ച് പിറ്റ്സ് ന്യൂറോൺ എന്ന് വിളിക്കുന്ന ആദ്യത്തെ മോഡലാണിത് വളരെ ലളിതമായി അദ്ദേഹം കമ്പ്യൂട്ടറിൻറെ യുക്തിയെയും ബൂളിയൻ ബീജഗണിതം 0 1എന്ന വിവരങ്ങളുടെ ബൈനറി സെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് സന്ദേശം മുന്നോട്ടു നീങ്ങുന്നത് വളരെ ലളിതമായ രീതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ സന്ദേശവും ബൈനറി സന്ദേശം മാതൃകയിലാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് അതിനാൽ അദ്ദേഹം പുറത്തുകൊണ്ടുവന്ന മക്കല്ലോച്ച് പിറ്റ്സ് മോഡലും ആശയവും അതിശയകരമായിരുന്നു കാരണം ന്യൂറോണുകൾ പ്രവർത്തന ശേഷിയിലേക്ക് തിരിച്ചുപോയാൽ ഒരു പരിധി കടക്കുന്നതുവരെ പ്രതികരിക്കില്ല അതിനാൽ 70 മില്ലി വോൾട്ടിൽ നിന്ന് 50 മൈനസ് 55 മില്ലി വോൾട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവ പ്രതികരിക്കില്ല അതിനാൽ ഒരൊറ്റ ന്യൂറോണാകാൻ ഒരൊറ്റ ഇൻപുട്ടിന് ഒരിക്കലും അതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതിനാൽ അവ ഒന്നിലധികം ഇൻപുട്ടുകൾ ആയിരിക്കണം അവിടെയാണ് 1000 മുതൽ 10000 ന്യൂറോണുകൾ ഒന്നിൽ ഒത്തുചേരുന്നത് ഒപ്പം ഈ എക്സിറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് സാധ്യതയും ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് സാധ്യതയും അവർ അതിനെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഒന്നിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ആശയം ആണ് മിഴിവോടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ത്രെഷോൾഡ് ലോജിക് യൂണിറ്റ് രീതിയിലുള്ള യഥാർത്ഥ ന്യൂറോൺ മോഡലാണിത് അതായത് മുഴുവൻ ഇൻപുട്ടും ഒരു പരിധിയിലേക്ക് പോകുന്നില്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടും ലഭ്യമാകുന്നതല്ല അതിനാൽ ഈ ആശയം പറയുന്നത് മറ്റു ന്യൂറോണുകൾ നിന്നും ഉത്തേജിക്കപ്പെടുമ്പോൾ ഒരു കൂട്ടം ശൃംഖലകൾ രൂപപ്പെടുന്നു ഇത് ഒരു ന്യൂറോൺ 1234 ആണ് തുടർന്ന് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് അത് പ്രോസസ്സ് ചെയ്യുകയും മറ്റ് ന്യൂറോണുകളിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു അതിനാൽ അവർ എന്താണ് പറഞ്ഞത് ഇതാണ് ആണ് മുഴുവനായും ഇൻപുട്ടിന്റെ പ്രക്രിയയും പ്രവർത്തനവും വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നത് പ്രക്രിയ അങ്ങനെയാണ് ഓരോന്നിനും ഒരു ഭാരം ഉണ്ട് ഈ തൂക്കങ്ങളുടെ സംഗ്രഹമാണ് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്നതും അത് രേഖീയ അല്ലാത്തതും ആയിരിക്കും ഒന്നു വരിക ഒന്ന് പോവുക രണ്ടു വരിക രണ്ട് പോവുക എന്ന പോലെ അല്ല ഇത് അതിനാൽ വളരെ ജനപ്രിയമായിത്തീർന്ന ആദ്യത്തെ മോഡലിൽ ഈ മുഴുവൻ സംഗ്രഹ പ്രക്രിയയും ഒരു നോൺ ലീനിയർ പ്രക്രിയയാണ് അത് സ്ക്വാഷിംഗ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ത്രെഷോൾഡ് ആണ് പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു തലച്ചോറ് ബൈനറി രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നതാണ് പ്രശ്നം ന്യൂറോൺ തലത്തിൽ ഇത് സിംഗിൾ ആയിരിക്കാം പക്ഷേ ഔട്ട്പുട്ട് ലഭിക്കുന്നത് സങ്കീർണമാണ് എന്നുള്ളതാണ് ചോദ്യം മുഴുവൻ കാര്യങ്ങളുടെയും സംഗ്രഹണ പ്രക്രിയ രേഖീയമല്ലാത്തതാകാമെങ്കിലും ഈ ന്യൂറോണുകളുടെ ഔട്ട്പുട്ട് രേഖീയമായിരിക്കണം ഇല്ല എന്നാൽ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് ഇതുപോലെ അല്ല സങ്കീർണ്ണതയുടെ തലങ്ങൾപെരുമാറ്റം പ്രക്രിയ രീതി എന്നിവയും ഇതു പോലെയല്ല എന്നാൽ ഇത് മുഴുവൻ വസ്തുതകളുടെയും തുടക്കമാണ് വെറും തുടക്കം അല്ല എന്നാണ് ഞാൻ പറയുന്നത് കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ്നു ശ്രദ്ധാലുവായി ഇരിക്കുവാനുള്ള വലിയ പ്രചോദനം തന്നെയാണിത് വ്യത്യസ്ത വെയ്റ്റേജ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ന്യൂറോണുകൾ പരിശീലിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് വഴങ്ങുന്ന സ്വഭാവമുള്ള ഒന്നാണ് ഇത് ന്യൂറോണുകൾക്ക് മാറ്റം വരുത്തുന്നു എന്നാൽ ഈ മാതൃക കാര്യപ്രാപ്തി ഇല്ല എന്തെന്നാൽ വളരെ പെട്ടെന്ന് ഒരു ഇൻപുട്ട് വരികയും പ്രവർത്തിക്കുകയും പോവുകയാണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് അവിടെ രൂപമാറ്റം സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നില്ല അതിനാൽ പെർസെപ്ട്രോൺ എന്ന ആശയം കടന്നുവന്നു പെർസെപ്ട്രോൺ വളരെ ദുർബലമായതും എന്നാൽ ജനപ്രീതിയാർജിച്ചതുമായിരുന്നു ഇത് ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ്നു വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു ആശയമായിരുന്നു പക്ഷേ അതിന് അതിൻറെതായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തമായി പറഞ്ഞാൽ മസ്തിഷ്കം ലളിതമായി ഒരു ഭൌതിക ശാസ്ത്രത്തെയും പിന്തുടരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഇതിനുശേഷം ഏകദേശം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ആണ് അടുത്ത ആശയം കടന്നുവരുന്നത് ഹോപ്ഫീൽഡിൻറെ മാതൃകയാണ് അടുത്തതായി പുറത്തുവന്നത് വളരെ താൽപര്യമുണർത്തുന്ന ഒരു മാതൃകയാണ് ഹോപ്ഫീൽഡിൻറെത് ഹോപ്ഫീൽഡിൻറെ ആശയം ഉരുത്തിരിഞ്ഞിക്കുന്നത് ന്യൂറോണുകളിൽ നിന്ന് അല്ല പക്ഷേ അദ്ദേഹം പറയുന്നത് കാന്തികതയെകുറിച്ചാണ് എന്താണ് അദ്ദേഹത്തിൻറെ വലിയ ചോദ്യം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു കാന്തിക വലയത്തിൽ മെമ്മറി രൂപംകൊള്ളുന്നത് പൂര്ണമായ ഒരു കാന്തിക മൂലകത്തിലേക്ക് എങ്ങനെ ഒരു മെമ്മറി സാധ്യമാകുന്നു വ്യക്തമായി പറഞ്ഞാൽ അവിടെ ഒരു പ്രവാഹം നടക്കുന്നില്ല അവിടെ കാന്തികത രൂപപ്പെടുന്ന ഇല്ല ആയതിനാൽ സ്വതന്ത്രമായി പ്രവഹിക്കുന്ന ഇലക്ട്രോണുകളുടെ കാന്തികത മൂലം അവ കറങ്ങുന്നു അതിനാൽ ഒരു കാന്തികത്വം അതിൽ ഉണ്ടാകാം ഇതിനുള്ളിൽ എല്ലാം വിന്യസിച്ചിരിക്കുന്നത് ഒരേ രീതിയിലാണ് ആണ് അവ ഒരേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും എന്തെന്നാൽ അതാണ് മെമ്മറി എന്നറിയപ്പെടുന്നത് മൃദുവായ കാന്തികതക്ക് ഒരു മെമ്മറി ഉണ്ടെന്ന് നമുക്കറിയാം ആയതിനാൽ അദ്ദേഹം മുന്നോട്ടുവെക്കുന്ന ആശയം എന്തെന്നാൽ ഇതുതന്നെയാണ് ന്യൂറോണുകളിലും സംഭവിക്കുന്നത് അതായത് ഒരേ പോലുള്ള ഒരു കൂട്ടം ന്യൂറോണുകൾ ചിലപ്പോൾ യാതൊരു ബന്ധവുമില്ലാതെ വ്യത്യസ്തമായ പോക്കറ്റുകളിൽ ഉള്ള ന്യൂറോണുകൾ ആകാം പ്രക്രിയയിൽ അവ ഒരുമിച്ചു വരികയും ചെയ്യുന്നു ഈ ആശയം എടുത്തിരിക്കുന്നത് ഹെബ് പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽനിന്നാണ് ഇനി നമുക്ക് ഹെബ്ബിയൻ ആശയത്തെക്കുറിച്ച് സംസാരിക്കാം അസോസിയേറ്റ് ലേണിങ് എന്ന ആശയം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് ഇപ്പോൾ ഇതിനെ വളരെ ലളിതമായൊരു കാര്യമായി കാണുകയാണെങ്കിൽ ഇവയാണ് ന്യൂറോണുകൾ ഇത് അതിൻറെ പാളികളാണ് 1 234 എന്നിവ 5 6 ഇത് ഒരു പിരമിഡ് സെൽ ആണ് അതായത് പിരമിഡിലെ പിരമിഡൽ സെല്ലുകളിൽ അഞ്ചാമത്തെ പാളി നാലാമത്തെ പാളിയെ ഉത്തേജിപ്പിക്കുന്നു അവിടെ വളരെയധികം ഇൻപുട്ട് ലഭ്യമാകുകയും രണ്ടുമൂന്ന് പാളികളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള സെല്ലുകളാണ് നിലനിൽക്കുന്നത് ഈ രീതിയിലുള്ള നെറ്റ്വർക്കാണ് അവ നിർമ്മിക്കുന്നത് അതായത് നീല നീലയിലേക്കും ചുവപ്പ് ചുവപ്പിലേക്കും അങ്ങനെ ഇത് എല്ലാ സെൽ ഗ്രൂപ്പുകളിലേക്കും പോകുന്നു അതായത് ഒറ്റ പാളികൾ ഉള്ള സെല്ലുകൾ ഉണ്ട് ഒന്നിലധികം തരം ഉള്ള സെല്ലുകൾ ഉണ്ട് ഒന്നിലധികം തരം സെല്ലുകൾ പരസ്പരം മറ്റൊരു ശൃംഖല സൃഷ്ടിക്കുന്നു അവ വളരുന്നതിനനുസരിച്ച് സിംഗിൾ സെല്ലുകൾ എല്ലാത്തിനും കണക്ഷൻ നൽകുന്നു ഈ രീതിയിലുള്ളതാണ് അനുബന്ധ നെറ്റ്വർക്ക് ഇത് അസിക്രണസ് പാരലൽ പ്രക്രിയയാണ് ചിലപ്പോൾ ഇത് റാൻഡം പാരലൽ പ്രക്രിയയാകാം സിക്രണസ് പാരലൽ പ്രക്രിയയാകാം ഇപ്പോൾ ക്രമരഹിതമായി പൂർണ്ണമായും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാകാം ഡീമിസ്റ്റിഫൈങ്ങ് ബ്രെയിൻ എന്ന പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന എന്ന ഒരു ഉദാഹരണമാണിത് ചക്രവർത്തി എഴുതിയ പുസ്തകമാണ് ഇത് NPTEL സൈറ്റിൽ ഇത് ലഭ്യമാണെന്നും എനിക്ക് തോന്നുന്നു ഇതാണ് ആണ് ഏറ്റവും ഉചിതമായത് അടിസ്ഥാന കാര്യം എന്ന് പറയാവുന്നത് ഇത് ഉള്ളടക്കത്തെ അഭിസംബോധന ചെയ്യുന്ന മെമ്മറിയാണ് എന്താണ് ഉള്ളടക്കം ഞാൻ പറയുന്നു അത് മെമ്മറിയാണെന്ന് ഉദാഹരണമായി ആയി ഒരു റോസാപുഷ്പം എടുക്കുക വളരെ സാധാരണയുള്ള ഒരു വസ്തു ആണിത് ഞാൻ നിങ്ങളോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആ റോസാ പുഷ്പത്തെ ഓർക്കും പിന്നീട് നിങ്ങൾ അതിൻറെ രൂപത്തെ കുറിച്ച് ചിന്തിക്കാം അതിനു ശേഷം നിങ്ങൾ അതിൻറെ ഇതളുകളുടെ നിറങ്ങളെ കുറിച്ച് ചിന്തിക്കാം പിന്നീട് അതിനുള്ള എടുക്കുമ്പോൾ ഉള്ള വികാരം അതിൻറെ ഗന്ധം സമയം സമയം ഒരു പ്രശ്നമാണ് ഇവിടെ ഏതു ചെയ്യരുത് എന്നപോലെ അതായത് ഹോപ് ഫീൽഡ് മുന്നോട്ടുവയ്ക്കുന്ന ആശയം ഇതാണ് ശബ്ദായമാനമായതോ അപൂർണമായ ഉൽഭവം ഉള്ളതോ ആയ ഏത് ഒരു പാറ്റേണ് മസ്തിഷ്കത്തിലേക്ക് എത്തിയാൽ ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് നിങ്ങളുടെ മെമ്മറിയിൽ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിയും നിങ്ങളോട് ഞാൻ വെറുമൊരു റോസാപുഷ്പത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പറഞ്ഞപ്പോൾ ഒരുപാട് വസ്തുതകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിനു പകരമായി ഞാൻ ഒരു പ്ലാസ്റ്റിക് റോസാപുഷ്പം ആണ് നൽകുന്നതെങ്കിൽ കൂടി ആ റോസാപുഷ്പത്തിൻറെ എല്ലാ ഓർമ്മകളും നിങ്ങളിലേക്ക് കടന്നു വരും നിങ്ങൾ ഒരു കുട്ടിയോടു എ ഫോർ ആപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഏ ആണ് പഠിപ്പിക്കുന്നത് അതായത് എല്ലാവർക്കുമറിയാം ഏ ഫോർ ആപ്പിൾ എന്നും ആർ ഫോർ റോസ് ആണെന്നും അതായത് വിവരങ്ങൾ മെമ്മോറിയൽ ഭാഗങ്ങളായി സൂക്ഷിക്കുന്നതിനു പകരം അസോഷ്യേറ്റ് മെമ്മറി ആയി ശേഖരിക്കുന്ന അതാണ് നല്ലത് ആയതിനാൽ ഇവിടെയുള്ള ഏത് ഉത്തേജനത്തിനും മുഴുവൻ പാറ്റേണും വീണ്ടെടുക്കാൻ കഴിയും ഇതാണ് ഹോപ്ഫീൽഡ് മാതൃക അദ്ദേഹത്തിൻറെ അഭിപ്രായത്തിൽ ഒരിക്കൽ കുറച്ച് ഉത്തേജനം നൽകിയാൽ മസ്തിഷ്കം അതെല്ലാം ഓർത്തിരിക്കാൻ ശ്രമിക്കും മസ്തിഷ്കം പഠനപ്രക്രിയയിൽ ബന്ധങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കും അതിൻറെ എനർജി എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലുള്ള ആയിരിക്കാം എന്നാൽ ആദ്യമായി മെമ്മറി ഉറപ്പിക്കുമ്പോൾ മിനിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്നറിയപ്പെടുന്ന ഭാഗം അവിടെ രൂപംകൊള്ളുന്നു അവിടെയാണ് ഇതിൻറെ മുഴുവൻ എനർജിയും ഉൾക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചത് അളക്കാൻ കഴിയുന്ന ഉത്തേജനം എന്ന മക്കല്ലോച്ച് പിറ്റ്സ് ഫോർമുലയാണ് ഇത് പ്രവർത്തനത്തിലേക്ക് വരികയും ഈ ബന്ധമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് എനർജി ഉപയോഗത്തിൽ അടിസ്ഥാനം ആയിട്ടുള്ള ശൃംഖലയും പദ്ധതിയും ആണിത് ആയതിനാൽ അദ്ദേഹം ആവർത്തനം എന്ന വിഷയം അവതരിപ്പിക്കുകയും ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ നെറ്റ്വർക്കുകൾ പരസ്പരം സഹകരിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു തവണയല്ല നെറ്റ്വർക്ക് രൂപപ്പെടുന്നത് ഇത് ധാരാളം ഫീഡ്ബാക്ക് ലൂപ്പുകളിലൂടെ ആണ് സംഭവിക്കുന്നത് ആവർത്തനത്തിൻറെ ഫലമായി എത്തുന്നതുവരെ ഉത്തേജനം ആവർത്തിക്കുന്നു നെറ്റ്വർക്കിനെ മുഴുവൻ എനർജിയും കുറയുകയും അത് മിനിമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതാണ് ആകർഷക ഘടകം എന്നറിയപ്പെടുന്നത്നോൺ ലീനിയർ ഡൈനാമിക്ക്സിൽ ഉപയോഗിക്കുന്ന പദമാണ് ആണ് ഇത് ലക്ഷണങ്ങൾ സ്വാഭാവികമായും ഒരു രൂപമായി മാറാൻ സാധ്യതയുണ്ട് അതിനാൽ എനർജിയുടെ ലോ മിനിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ ആണ് ആകർഷിക്കുന്നത് അവിടെയാണു മെമ്മറി രൂപംകൊള്ളുന്നത് ഇത് സിക്രണസ് രീതിയിലോ അസിക്രണസ് രീതിയിലോ സംഭവിക്കാം വളരെ പ്രശസ്തമായ ഒരു യാത്ര വിൽപ്പനക്കാരൻ പ്രശ്നമുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം വിൽപ്പനക്കാരൻ കണ്ടെത്തിയേ തീരൂ പ്രശ്നപരിഹാരത്തിനായി അധികം യാത്ര ചെയ്യണം മറ്റൊരാളെ കണ്ടുപിടിക്കണം അതാണ് അതിൻറെ പ്രക്രിയ പക്ഷേ നമ്മുടെ മസ്തിഷ്കം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അതിനാൽ പ്രധാനമായും ഒരു യാത്രാ വിൽപ്പനക്കാരൻ ഒരു നെറ്റ്വർക്ക് കണ്ടെത്തിയേ തീരൂ ഓർമ്മകൾ പ്രതിനിധാനം ചെയ്യുന്നത് ആകർഷിക്കുന്നവരെയാണ് അതിൽ സ്ഥിരമായ ഒരു നെറ്റ്വർക്ക് ഡൈനാമിക്സ് ഉണ്ട് എന്താണ് ഈ ആകർഷിക്കുന്നവർ നെറ്റ്വർക്ക് രൂപത്തിലുള്ള ഉത്തേജനത്തിൻറെ ആന്തരിക പ്രതിനിധാനം ആണിത് ആയതിനാൽ മനസ്സിലേക്ക് എന്ത് എത്തപ്പെട്ടാലും അത് അവിടെ ഉണ്ടാകും അതിൻറെ പ്രതിനിധാനം അവിടെ ഉണ്ടാകും ഞാൻ പറഞ്ഞതും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ എന്തു നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി എത്തിയാലും നിങ്ങളുടെ മസ്തിഷ്കത്തിലെ അടിസ്ഥാനപരമായ സംവിധാനം അതിജീവനത്തിൻറെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തുന്നു ആയതിനാൽ ഒരുപാട് ന്യൂറോണുകൾ ഉള്ളതിനാലാണ് ഒരു ശൃംഖല ആവശ്യമുള്ളത് അവിടെ സിനാപ്റ്റിക് ശക്തി വേണം ഒരുപാട് ന്യൂറോണുകൾ ഉള്ള കാര്യം വളരെ സിമ്പിളാണ് നിങ്ങളുടെ തലയിൽ ശേഖരിക്കാൻ പോകുന്നു വിവരങ്ങളും വസ്തുതകളും എന്താണ് എന്ന് അതിൻറെ പരിധി എത്രയാണ് അതിജീവനത്തിൻറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ നിമിഷം അറിയാൻ കഴിയില്ല അതായത് അടിസ്ഥാനപരമായ ഒരു എനർജിയുടെ തലത്തിൽ മെമ്മറിയുടെ പ്രാതിനിധ്യം സ്ഥിരം ആകുമ്പോൾ ആണ് അടിസ്ഥാനപരമായ ആകർഷണം നടക്കുന്നത് ആകർഷകരിലെ മാറ്റം അല്ലെങ്കിൽ സിനാപ്റ്റിക് പരിഷ്കരണത്തെലേക്ക് അത് നീങ്ങുന്നു അതിനാൽ ആകർഷകർ പറയുന്നത് ന്യൂറോണുകൾക്കിടയിൽ അവ ഒരു പ്രത്യേക ഘട്ടത്തിൽ സിനാപ്റ്റിക് കണക്ഷനുകളിൽ ഉണ്ടായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മൾ അവയെ ഉത്തേജിപ്പിക്കുന്നു പുതിയ കാര്യങ്ങളുമായി ആവർത്തിച്ച് ഉത്തേജനം തുടരുന്നു സിനാപ്റ്റിക് രൂപമാറ്റം സംഭവിക്കുന്നു ഇത് സ്ഥലപരമായ സമയപരമായ ഉള്ള മാറ്റം ആകാം അതിനാൽ മാറ്റമുണ്ടായാൽ ആ മാറ്റം സംരക്ഷിക്കപ്പെടുന്നു അടുത്ത തവണ ഒരു ഉത്തേജനം നടക്കുമ്പോൾ ഉടനടി മെമ്മറി ഹ്രസ്വകാല മെമ്മറി ദീർഘകാല മെമ്മറി എന്നിവയിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ഉടനടി മെമ്മറിയിൽ അത് ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നു ഇനി അത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹ്രസ്വകാല മെമ്മറിയിൽ നിങ്ങൾ തിരയുന്നു ഈ തുടർച്ചയായ ഉത്തേജനം തുടരുകയും ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണുകളുടെ ഒരു നെറ്റ്വർക്ക് രൂപംകൊള്ളുകയും അതിന് ആ ഉത്തേജനത്തിന് എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതും ആയിരിക്കും ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം ഉള്ളിലേക്ക് പോവുകയും മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന ചെറിയ വിടവുകൾ പോലും നിങ്ങളുടെ ഗസ്റ്റാൾട്ട് മെമ്മറിയിൽ നിന്നും പൂർത്തിയാക്കുകയും ചെയ്യും ആവർത്തനം പരിശീലനം തുടർച്ചയായുള്ള ഉത്തേജനം എന്നിവയിലൂടെ ഗസ്റ്റാൾട്ട് നിങ്ങളുടെ പൂർണ്ണമായ സിനാപ്റ്റിക് ജാമിതീയ ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നു ഒരു പട്ടി വന്നു നിങ്ങളെ കടിച്ചു ഇത് നിങ്ങളുടെ ദീർഘകാല മെമ്മറിയിലേക്ക് ആണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ചു അത് ആദ്യം വളരെ തീവ്രമായിരുന്നു ഇത് നിങ്ങളുടെ നിലവിലുള്ള സിനാപ്റ്റിക്മാറ്റം വരുത്തുന്നു ഇത് സ്ഥിരമായി ദീർഘകാല മെമ്മറിയിലേക്ക് പോകുന്നു ആയതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ തവണ ഈ ഉത്തേജനം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ദീർഘകാല മെമ്മറിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഓർത്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു കാരണം ഈ വിവരങ്ങളെല്ലാം അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അതിനാൽ ഉത്തേജനം ശബ്ദായമാനമായ ആണെങ്കിലും അപൂർവമാണെങ്കിലും മസ്തിഷ്കത്തിന് തിരിച്ചറിയാൻ കഴിയുകയും അതിലേക്ക് നീങ്ങുവാൻ സാധിക്കുന്നു ഇത് ശരിക്കും ഡൊണാൾഡ് ഹെബ്ബന്റെ വർക്കിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡൊണാൾഡ് വളരെ ലളിതമായി ഞാൻ പറയുന്നത് വളരെ ലളിതമെന്ന് പക്ഷേ അദ്ദേഹത്തിന് ചിന്തിച്ച് എടുക്കാൻ ബുദ്ധിമുട്ട് ആയിരുന്നിരിക്കാം ഒരേസമയം ഉത്തേജിക്കപ്പെടുന്ന ന്യൂറോണുകളെക്കുറിച്ച് പറയുന്നു അവ ഒരുമിച്ചാണ് അതായത് ആദ്യത്തെ ഉത്തേജനം ലഭിക്കുമ്പോൾ ഉത്തേജിപ്പിക്കപെട്ട ന്യൂറോൺ തൊട്ടടുത്തുള്ള ന്യൂറോണിനെ ഉത്തേജിപ്പിക്കപെടുന്നു ഓരോ തവണ ഉത്തേജിക്കപ്പെടുമ്പോഴും ഈ ശൃംഖല ശക്തിപ്പെടുന്നു അതിനാൽ ഓരോ തവണയും പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണുകളും ഒരുമിച്ച് ഉത്തേജിപ്പിക്കപെടുന്നു സിനാപ്റ്റിക് ദൂരം കൂടുകയും ഒരുമിച്ച് ഉത്തേജനം നടക്കുകയും ചെയ്യുന്നു ഇതാണ് ഹ്രസ്വകാല മെമ്മറിയുടെ അടിസ്ഥാനം അതിനാൽ ഹെബ്ബിയൻ പഠന രീതി അനുസരിച്ച് ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം രൂപപ്പെടുകയും ശക്തിപ്രാപിക്കുകയും സവിശേഷമായ ഒരു ഉത്തേജന പാറ്റേൺ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് ഹ്രസ്വകാല മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ ഉത്തേജനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ ശക്തിയേറിയതാണ് ഓരോ തവണയും ഉത്തേജനം നടക്കുമ്പോൾ മെമ്മറി സ്വീകരിക്കുകയും സിനാപ്റ്റിക് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു ഹോപ്പ്ഫീല്ഡ് മാതൃകയിൽ ഇത് എങ്ങനെ ദീർഘ കാല മെമ്മറിയിലേക്ക് മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത് സംഭവിക്കുന്നത് ഹിപ്പോകാമ്പസ് എന്ന് വിളിക്കുന്ന ഭാഗത്താണ് താൽക്കാലികമായ ലോഗ് ഉള്ള വിശാലമായ ഭാഗമാണ് ഹിപ്പോകാമ്പസ് ഇതിനുള്ളിൽ ഉള്ള ഒരു ചെറിയ ഭാഗം ആണ് പെപസ് സർക്യൂട്ട് ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിപ്പോക്യാമ്പസിൽ നിന്ന് എല്ലാം ഇവിടേക്കാണ് മാറ്റം ചെയ്യപ്പെടുന്നത് ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടുകഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഒരു വിശാലമായ ഭാഗത്തിലേക്ക് ആണ് പോകുന്നത് മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക ഭാഗത്താണ് മെമ്മറി രൂപംകൊള്ളുന്നത് എന്ന് പറയാൻ കഴിയില്ല മെമ്മറി എന്നുപറയുന്നത് വളരെ വിശാലമായ ഒന്നാണ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ ഒരു റോസാ പുഷ്പത്തിൻ ആയിരം ന്യൂറോണുകൾ അതിൻറെ മുള്ളിന് ആയിരം നിറത്തിന് ആയിരം ഇങ്ങനെആയാൽ അധിക പൂരിതം ആയി മാറും അതായത് ഗന്ധം ഗന്ധത്തിന് ഭാഗത്തുനിന്നും കാഴ്ച കാഴ്ച്ചയുടെ ഭാഗത്തുനിന്നും ആണ് വരുന്നത് ഇത് വളരെ വിശാലമാണ് ഒപ്പം പരസ്പര ബന്ധിതവുമാണ് നിങ്ങൾ ഒരു റോസാപ്പൂവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷേ ആയിരത്തിലധികം ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുന്നു ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയോ പ്രണയിതാവ്മായുള്ള ഓർമ്മകൾ ആകാം അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന അസുഖത്തിന് ഭാഗമായി ആളുകളുടെ മെമ്മറി നഷ്ടപ്പെടുമ്പോൾ ആദ്യം നശിക്കുന്നത് ഹിപ്പോകാമ്പസ് എന്ന ഭാഗം ആണ് അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് സമീപകാല മെമ്മറിയുടെ നഷ്ടമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകൾ പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അവർക്ക് പഴയതെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അവരുടെ സമീപകാലത്തെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിന് കാരണം ഇവരുടെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഭാഗമാണ് നശിച്ചിരിക്കുന്നത് ഹെബ്ബിയൻ പഠനമനുസരിച്ച് ആ ഭാഗത്തുള്ള എല്ലാ നെറ്റ്വർക്കുകളും നശിച്ചിരിക്കുന്നു ഒരു ശബ്ദമയമായ സമയത്ത് ഉള്ള ഉത്തേജനത്തിൽ നിന്ന് പോലും ഒരു രൂപം നിർമ്മിക്കാൻ മസ്തിഷ്കത്തിന് കഴിയുന്നു ഇതാണ് ഗസ്റ്റാൾട്ട് മനശാസ്ത്രം ഗസ്റ്റാൾട്ട് അഭിപ്രായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം വളരെയധികം പൊടിക്കൈകൾ ആയ ക്ലോഷർ അപ്രൊക്സിമേഷൻ പ്രോക്സിമിറ്റി എന്നിവ രൂപം പൂർത്തിയാക്കാൻ പ്രയോഗിക്കുന്നു മസ്തിഷ്കത്തിന് അനിശ്ചിതത്വം ആവശ്യമില്ല ആയതിനാൽ മനുഷ്യൻറെ മസ്തിഷ്കം ഏത് മസ്തിഷ്കം ആയിക്കോട്ടെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ നൽകുന്ന അവ്യക്തമായ സിഗ്നൽ നിന്ന് പോലും വ്യക്തമായ രൂപം ഉണ്ടാക്കി എടുക്കാൻ മസ്തിഷ്കം ശ്രമിക്കുന്നു നിങ്ങൾ മേഘങ്ങളെ കാണുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു രൂപംഊഹിച്ച് എടുക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് ആ പുകയുടെ പാളികളിൽ നിങ്ങൾക്ക് ഒരു രൂപം കാണാൻ കഴിയുന്നു ഒരു രൂപം പോലും ഇല്ലാത്ത ഇടത്തു പോലും ആളുകൾ രൂപം കാണുന്നു ഇതാണ് ആ വസ്തുത അതായത് ഹെബ്ബിയൻ ന്യൂറോഫിസിയോളജിയുടെയും ഗസ്റ്റാള്ട്ട് സൈക്കോളജിയുടെയും ഒരു സങ്കലനമാണ് ഇത് ഹെബ്ബിൻറെ അഭിപ്രായത്തിൽ സെല്ലിൻറെ കൂടിച്ചേരലിൽ ന്യൂറോണുകൾ ഒരുമിച്ച് ഉത്തേജിക്കപ്പെടുന്നു ഈ ന്യൂറോണുകൾ ചേർന്ന് ഒരു വലിയ ശൃംഖല തന്നെ രൂപംകൊള്ളുകയും അവ ഒരു കോളം ആയി മാറി കൊണ്ട് ഫങ്ക്ഷണൽ സെല്ലുകളുടെ സങ്കലനം ഉണ്ടാകുന്നു അതായത് ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണമായിട്ട് പരസ്പരമുള്ള ഉത്തേജനം അല്ല ഇവിടെ നടക്കുന്നത് ഓരോ ഉത്തേജനത്തിനു ഭാഗമായി മെമ്മറിയിൽ രൂപംകൊള്ളുന്ന സെല്ലുകളുടെ സങ്കലനം ഉത്തേജിക്കപ്പെടുമ്പോൾ പുറമേയുള്ള വസ്തുവിൻറെ പൂർണ്ണമായ രൂപം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആന്തരികമായി ഒരു ഉത്തേജനം രൂപംകൊള്ളുന്നു നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ അവസാനത്തെ ആഹാരത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക ഇപ്പോഴും നിങ്ങൾക്ക് അതിൻറെ മണവും രുചിയും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ സെല്ലുകളുടെ സങ്കലനം നടക്കുകയും ഒരുമിച്ചു ഉത്തേജിക്കപെട്ട് അത് മെമ്മറിയിൽ എത്തുകയും ചെയ്തു നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഉത്തേജനം നടക്കുന്നു ഇപ്പോൾ ഓർത്തെടുക്കൽ പ്രക്രിയ നടക്കുമ്പോൾ എല്ലാ പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും ഒരേപോലെ ഉത്തേജനം നടക്കണമെന്നില്ല അതിൻറെ ഒരു പതിപ്പ് പലഭാഗങ്ങളിലും ഉണ്ടാകാം അതിൻറെ ഒരു ഭാഗം ഓർത്ത് എടുത്താൽ മതിയാകും പക്ഷേ അത് രൂപംകൊള്ളുമ്പോൾ സെല്ലുകളുടെ സങ്കലനം ഒരുമിച്ചു നടക്കുകയും ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു അതായത് ഒരു ഗ്ലോബൽ സിനാപ്റ്റിക് പ്രവർത്തനമേഖല അവിടെ അടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് ഗ്ലോബൽ എന്നതിന് മെമ്മറിയിൽ ഒരു പ്രത്യേക സ്ഥലം എന്നൊന്നില്ല കമ്പ്യൂട്ടർ അഡ്രസ്സ് പോലെ പല ബോക്സുകൾ പോലെയാണ് ഇത് അവയെല്ലാം ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കി എന്നുപറഞ്ഞാൽ മെമ്മറിയുടെ ഏതൊരു ഭാഗത്തിനും മുഴുവൻ മെമ്മറിയും ഉത്തേജിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അത് വിശാലം ആയിരിക്കും ഞാൻ പ്രീ സിനാപ്റ്റിക് പോസ്റ്റ് സിനാപ്റ്റിക് എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ അവ അടുത്തുള്ളത് ആയിരിക്കണമെന്നില്ല ഒരു പത്ത് ന്യൂറോണുകൾ ഉണ്ടെന്നു വിചാരിക്കുക മെമ്മറിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതിന് അവ ഒരുമിച്ച് ഉത്തേജിക്കപ്പെടുന്നു അവ വളരെ വിശാലമായ അകന്നത് ആയിരിക്കാം സെല്ലുകളുടെ സങ്കലനം അകലെയാണെങ്കിൽ അത് പൂർണമായും ഗ്ലോബൽ ആയി മാറുന്നു സെല്ലുകളുടെ സങ്കലനം അടുത്ത ആണെങ്കിൽ അത് പ്രാദേശികമായി മാറുന്നു ഇതെല്ലാം ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു ഒരു സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന സാമൂഹ്യ ശൃംഖല പോലെ നമ്മളെല്ലാവരും ഇന്ത്യയിൽ ആണ് ജീവിക്കുന്നത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമുക്ക് പൊതുവായി ഒരു സംസ്കാരം ഉണ്ട് അതിൽ അവിടെയുമിവിടെയും ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നാൽ എന്റെ സോഷ്യൽ നെറ്റ്വർക്ക് എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ന്യൂയോർക്കിലോ ബാംഗ്ലൂരിലോ കൊൽക്കത്തയിലോ താമസിക്കുന്ന എന്റെ ഇന്ത്യൻ സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഹെബിയൻ സെൽ സങ്കലനം അനുസരിച്ച് ഞങ്ങൾക്ക് പരസ്പരം അറിയാം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എൻറെ എല്ലാ സുഹൃത്തുക്കളും ഒരുമിച്ച് അതിൽ ഇടപെടുകയും എല്ലായ്പ്പോഴും എല്ലാവരും ഒരുമിച്ച് ഇടപെടണം എന്നില്ല പക്ഷേ ഒരു പ്രത്യേക അവസരത്തിൽ ഇടപെടീൽ ഉണ്ടാകാം അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചു പ്രവർത്തിക്കുന്നു അല്ലാതെ എങ്ങനെയാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാളും ആയിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത് പക്ഷേ അതിനൊരു ആറുമാസത്തെ സമയം ഉണ്ടാവണം ആ സമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എല്ലാം ചെയ്യുന്നത് അവിടെയാണ് മെമ്മറി രൂപംകൊള്ളുന്നത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ കാര്യവും ഒരുമിച്ച് ഉത്തേജിക്കപ്പെടുന്നു അതിജീവന പ്രക്രിയ എന്നപോലെ ഇത് നമ്മുടെ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ സാമൂഹിക ശൃംഖല എവിടെ നിന്ന് തുടങ്ങി സ്ഥലം സമയം ഭൂമിശാസ്ത്രം എന്നിവയിലൂടെ ആഗോള തലങ്ങളിലേക്ക് പോകുകയും അവിടെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു അതായത് കാര്യങ്ങൾ മുകളിൽനിന്ന് താഴേയ്ക്കും താഴെ നിന്നും മുകളിലേക്ക് പോകാം ഇതാണ് കാര്യങ്ങൾ സമീപിക്കുന്ന വിശാലമായ രീതി അതിനാൽ നിങ്ങൾക്ക് ഇതിൻറെ സംഗ്രഹം അറിയണമെന്നുണ്ടെങ്കിൽ അവ സ്പേഷ്യൽ സ്കെയിലിലുടനീളം ഉള്ള കൂട്ട ശ്രേണിക്രമീകരണമായുള്ള ഇടപെടലാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രാദേശികമല്ലാത്ത അനുരണന ഇടപെടലാണ് അനുരണനം എന്നുപറഞ്ഞാൽ ചിലത് തുടരുകയും എന്നാൽ മറ്റൊന്നിലേക്ക് വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു അതിനാൽ അവബോധം വിമർശനാത്മകമായി ആശ്രയിച്ചിരിക്കുന്നത് ഈ പ്രതിഭാസത്തെയാണ് അതല്ല ഇപ്പോഴത്തെ ചർച്ചാവിഷയം അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ആയതിനാൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തോട് കൂടി ഞാനെൻറെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നമ്മൾ നെറ്റ്വർക്കുകളെകുറിച്ചും ആന്ദോളനങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു ഹോപ്ഫീൽഡ്മാതൃകയിൽ അത് നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നും എങ്ങനെ ആകണം എന്നും മെമ്മറിയിലേക്ക് എങ്ങനെ എത്തിയെന്നും നമ്മൾ കണ്ടിരുന്നു ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്ന തീർച്ചയായും ഉറപ്പാണ് ഒരു സിനിമയാണ് വളരെ വളരെ പ്രശസ്തമായ മായ സിനിമ ബാബേൽ ആണിത് ഇതൊരു പുരാണ കഥയാണ് ദൈവം മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ഇതിൽ തീർച്ചയായും പറയുന്നത് അവയെല്ലാം അദ്ദേഹത്തെ അത്രയധികം ബുദ്ധിമുട്ടിച്ചു ഉണ്ടാകാം ദൈവം ആയതിനാൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതി ഏതാണ് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം ബാബേൽ ഗോപുരം നിർമ്മിച്ചു അതിൽ ഓരോന്നിലും ഓരോ ആൾക്കാരെയും താമസിപ്പിച്ചു അവർ ഒരുമിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം ബുദ്ധിപരമായി മുന്നോട്ടുനീങ്ങി ആ ബുദ്ധി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരോ ഭാഷയാണ് നൽകിയത് അതിനാൽ ഒരു നിലയിലുള്ളവർക്ക് മറ്റ് നിലയിലുള്ളവരോട് സംസാരിക്കാൻ കഴിയില്ല ഇതാണ് ബാബേൽ ഗോപുരത്തിൻറെ മസ്തിഷ്കം നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും വ്യത്യസ്ത തരം പെരുമാറ്റം കൊല മുതൽ മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവരുടെ പെരുമാറ്റവും താഴേക്ക് വരുമ്പോൾ ഇത് എവിടെ നിന്ന് ആരംഭിച്ചു എന്നും അവരെങ്ങനെ വ്യത്യസ്തരാണെന്നും ഓരോ ചെറിയ ഗ്രൂപ്പുകളിലും വ്യക്തികളുടെ വ്യത്യാസങ്ങളും വലിയ ഗ്രൂപ്പുകളെകുറിച്ചും അവരുടെ വ്യത്യസ്തതകളെ കുറിച്ചും രാജ്യങ്ങളുടെ വ്യത്യാസങ്ങളെക്കുറിച്ച് ഭൂഖണ്ഡങ്ങളുടെ വ്യത്യാസങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാകും പക്ഷേ അടിസ്ഥാനപരമായ സ്വഭാവം വരുന്നത് മസ്തിഷ്കത്തിൽ നിന്നാണ് താഴേക്ക് വരുമ്പോൾ അവിടെ സെറിബല്ലം ഹെമിസ്പിയർ ഉണ്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല നിങ്ങൾ ജീവനുള്ള ഒരു മസ്തിഷ്കം തുറക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും കഴിയുന്നതിൽ നിന്നും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നീട് നമ്മൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടി ഇലക്ട്രിക്കൽ വഴികൾ ഉപയോഗിച്ച് മസ്തിഷ്കത്തെ മുറിക്കുമ്പോൾ അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു പിന്നീട് വീണ്ടും മൈക്രോസ്കോപ്പി ചെയ്തു അതു ന്യൂറോണുകൾ കണ്ടെത്തുകയും വലിയൊരു കൂട്ടം ന്യൂറോണുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഘടന ലഭിക്കും പക്ഷേ ആ ഘടനയിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് മറ്റു രീതികൾ അവലംബിക്കാംനിങ്ങൾക്ക് ഈ ജി തരംഗങ്ങളെ ഉപയോഗിക്കാം എംആർഐ ഉപയോഗിക്കാം ഇവയെല്ലാം മസ്തിഷ്കത്തിൻറെ പല ഭാഗത്തുള്ള ഉള്ള ഇൻഡയറക്ട് സിഗ്നലുകൾ നിങ്ങൾക്ക് നൽകാം അതിലൊരു അർത്ഥവുമില്ല പിന്നീട് നിങ്ങൾ ഗണിതപരമായ മാതൃകകളെ ആശ്രയിക്കാം ന്യൂറോണുകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്നിങ്ങൾ അന്വേഷിക്കാം നിങ്ങൾ ഒരുപക്ഷേ മനഃശാസ്ത്രപരമായി ഭാഗികമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഭാഗികമായി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ മനുഷ്യർക്ക് നൽകുകയും അവരോട് നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും അതിൻറെ അടിസ്ഥാനത്തിൽ ഈ ശൃംഖല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഊഹിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോഴും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ശൃംഖലകളെ തരംതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് സിദ്ധാന്തം ആയതിനാൽ ഇതിനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെയാണ് ഇത് വിവേകപൂർണമായി തോന്നുന്നത് ആന്തോളനം ഉണ്ടാവുമ്പോൾ എല്ലാം നെറ്റ്വർക്ക് ഉത്തേജിക്കപ്പെടുന്നു നിങ്ങൾ ഈ ജി എടുക്കുമ്പോഴുള്ള ഇലക്ട്രിക്കൽ പ്രക്രിയ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് പ്രക്ഷേപണം നടത്തുന്നത് അതിന് മാറ്റം സംഭവിക്കുന്നു അവിടെ ഉത്തേജനം നടക്കുന്നുണ്ടാകും ഭൌതികമായി ഇത് എന്താണ് ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൈകൾ ചലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എംആർ ഐൽ കാണാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഈ ജീൽ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ കഴിയും പക്ഷേ ഭൌതിക തലത്തിനപ്പുറം ഇത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ പ്രക്രിയ ചിന്തകളെ പ്രവർത്തനം ആക്കി മാറ്റുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യാം